ഈ കോഴ്സിലെ പതിനൊന്നാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഇതിനു മുമ്പുള്ള ലെക്ചറിൽ നാം നോക്കിയത് ആദ്യത്തെ ടൂൾ ആയ സ്മിത്ത് ചാർട് ആണ് അത് മൈക്രോ വേവ് എഞ്ചിനീയർ സാധാരണയായി ഉപയോഗിക്കാറുള്ളതാണ് മാത്രമല്ല ഇമ്പിഡൻസ് എത്രയെന്നു കണക്കു കൂട്ടാനായി ഉള്ള ധാരാളം ഉദാഹരണങ്ങൾ ചെയ്യുകയും ഒപ്പം ഇമ്പിഡൻസ് മാച്ചിങ് പ്രശ്നങ്ങൾ അപഗ്രഥിക്കുകയും ചെയ്തു നാം ഇമ്പിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്തു ഇനി ഈ ആഴ്ച നാം നോക്കുക മൈക്രോ വേവ് എഞ്ചിനീയർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടൂൾ ആണ് അതാണ് എസ് പാരാമീറ്റർ അല്ലെങ്കിൽ സ്കാറ്റെറിംഗ് പാരാമീറ്റർ ആദ്യം നാം മൈക്രോ വേവ് ഫ്രീക്വെൻസി യിലെ വോൾടേജ് കറന്റ് എന്നിവ ആയിരിക്കും നോക്കുക ഇപ്പോൾ മൈക്രോ വേവ് ഫ്രീക്വെൻസി യെക്കാൾ കുറവ് ഉള്ളത് നോക്കാം സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണന്റ് അതിലെ വേവ് ലെങ്ത് വച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് അത് ഫ്രീക്വെൻസി കുറയുമ്പോൾ ആണ് എന്തെന്നാൽ ഫ്രീക്വെൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു നാം കിലോ ഹേർട്സ് മുതൽ മെഗാ ഹേർട്സ് വരെ ഉള്ള ഫ്രീക്വെൻസി ഉപയോഗിക്കുമ്പോൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ഡയോഡ് പിന്നെ പലതരം ആംപ്ലിഫൈർ എന്നിവ വേവ് ലെങ്ത് വച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അതിനാൽ തന്നെ ലൈനിലെ രണ്ടു പോയിന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറെൻസ് നമുക്ക് അവഗണിക്കാനാകുന്നതാണ് അതിനാൽ നമുക്ക് വോൾടേജ് കറന്റ് എന്നിവ ഇവിടെ അതുല്യമായി നിർവചിക്കാനാകും അതിൽ ഒരു വേവ് സ്വഭാവം ഇല്ല എന്ന് തന്നെ പറയാം അതിൽ നാം കൊടുക്കുന്നത് ഒരു വേവ് ആണെങ്കിലും കൂടാതെ അത് ഒരു കുറഞ്ഞ ഫ്രീക്വെൻസി വേവ് ആണ് അതിനാൽ ഇവിടെ വോൾടേജ് കറന്റ് എന്നിവ വോൾടേജ് കറന്റ് എന്നിവയുടെ നിയമം അനുസരിക്കുന്നു ഒരു കംപോണന്റ് വരുന്നത് വരെ വോൾടേജ് കറന്റ് എന്നിവ മാറുന്നതല്ല പക്ഷെ ഇത് ഒരു വേവ് ആണെങ്കിൽ തീർച്ചയായും വോൾടേജ് കറന്റ് എന്നിവ മാറേണ്ടതാണ് പക്ഷെ ഒരു കുറഞ്ഞ ഫ്രീക്വെൻസിയിൽ രണ്ടു പോയിന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറെൻസ് നമുക്ക് അവഗണിക്കാനാകുന്നതാണ് ഇവിടെ ട്രാൻസ്മിഷൻ ലൈൻ എന്നതിനെ ഒരു കോ ആക്സിയൽ ലൈൻ എന്ന രീതിയിൽ പരിഗണിക്കാനാകുന്നതാണ് അതിനാൽ ഇവിടെ വോൾടേജ് കറന്റ് എന്നിവ യുണിക് വളരെ ലളിതമായി പരിഗണിക്കാനാകുന്നതാണ് അത് പോലെ കുറഞ്ഞ ഫ്രീക്വെൻസിയിൽ ഈ രണ്ടു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്നത് ട്രാൻസ്വേർസ് ഇലക്ട്രോ മാഗ്നെറ്റിക് ആണ് അഥവാ അത് ട്രാൻസ്വേർസ് ഇലക്ട്രോ മാഗ്നെറ്റിക് അല്ലെങ്കിൽ അത് ക്വാസി TEM ആയിരിക്കും എന്ന് വച്ചാൽ പ്രായോഗികമായി അത് TEM ആയിരിക്കും അതിനാൽ മാക്സ് വെൽ സമവാക്യം Maxwell's equation കുറഞ്ഞ ഫ്രീക്വെൻസിയിൽ നാം സോൾവ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോ ഡൈനാമിക് അതുപോലെ തന്നെ ക്വാസി സ്റ്റാറ്റിക് കൂടെ ആണ് അതായതു ഉത്തരം ഇലക്ട്രോ സ്റ്റാറ്റിക് മാഗ്നെറ്റോ സ്റ്റാറ്റിക് രീതിയിൽ ആയിരിക്കും അത്കൊണ്ട് നാം ഉപയോഗിക്കുന്ന വോൾടേജ് കറന്റ് നിർവചനം പര്യാപ്തമാണ് എന്നാൽ ഉയർന്ന ഫ്രീക്വെൻസിയിൽ ഇതല്ല സ്ഥിതി അവിടെ നാം TEM അല്ലാത്ത പ്രൊപഗേഷൻ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ മാക്സ് വെൽ സമവാക്യം Maxwell's equation വേറെ മോഡ് വച്ചാണ് സോൾവ് ചെയ്യേണ്ടി വരിക അതായതു പവർ പ്രവഹിക്കുക പല മോഡുകളിലൂടെ ആണ് അപ്പോൾ നമുക്ക് ഒരേ സമയം മാക്സ് വെൽ സമവാക്യം Maxwell's equation അതോടൊപ്പം ബൌണ്ടറി കണ്ടീഷൻ എന്നിവയും നോക്കേണ്ടതാണ് ഈ മാക്സ് വെൽ സമവാക്യം Maxwell's equation എന്നത് പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും കൃത്യമായ ഉത്തരം ആണ് നൽകുക എന്നാൽ ഉയർന്ന ഫ്രീക്വെൻസിയിൽ അല്ലെങ്കിൽ മൈക്രോ വേവ് ഫ്രീക്വെൻസിയിൽ അത് എപ്പോഴും ആവശ്യമില്ല എത്ര വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവസാനം പ്രായോഗികമായി നമുക്ക് വേണ്ടത് ടെർമിനൽ അടിസ്ഥാനമായ അറിവാണ് പൊതുവെ നാം ചെയ്യുക പ്രോബ്ലം പല ലളിതമായ ഭാഗമായി ഡിവൈഡ് ചെയ്യുക എന്നതാണ് അതിനാലാണ് നാം ബ്ലോക്ക് ഡയഗ്രം പരിഗണിക്കുന്നത് എന്നാൽ ആ ബ്ലോക്ക് ആദ്യം നാം ഡിസൈൻ ചെയ്യേണ്ടതാണ് അതിനു ശേഷം അവ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതാണ് അപ്പോൾ പ്രായോഗികമായി ഈ ബ്ലോക്കുകളുടെ ടെർമിനൽ എന്താണെന്നാണ് പ്രധാനമായും നാം നോക്കേണ്ടത് അതായതു ഈ ഉപ ബ്ലോക്കുകളുടെ പോർട്ട് ഏതൊക്കെ എന്നത് പ്രധാനമാണ് പോർട് 1 ലേക്ക് പോകുന്ന കറന്റ് എത്രയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന കറന്റ് എത്രയാണ് ആ ബ്ലോക്കിലെ പവർ എത്രയാണ് ഈ പോർട്ട് ടെർമിനലുകളുടെ ഇടയിലെ ഇമ്പിഡൻസ് എത്രയാണ് പല ബ്ലോക്കുകൾ ബന്ധിക്കുന്നതിനായി നാം ഈ ടെർമിനൽ ഉപയോഗിക്കുന്നതാണ് ആവശ്യം വന്നാൽ ഇമ്പിഡൻസ് നാം മാറ്റം വരുത്തുന്നതാണ് കൃത്യമായ ഇലക്ട്രിക്ക് ഫീൽഡ് പിന്നെ മാഗ്നെറ്റിക് ഫീൽഡ് എന്നിവ കണ്ടെത്താനാകുന്നതാണ് അപ്പോൾ ഈ ബ്ലോക്കുകളുടെ അകത്തുള്ള പോയിന്റ് എപ്പോഴും ആവശ്യമില്ല എഞ്ചിനീർമാർ ശ്രമിക്കുക ഈ മൈക്രോ വേവ് ഫ്രീക്വെൻസിയിൽവോൾടേജ് അല്ലെങ്കിൽ കറന്റ് എന്ന ആശയം കൊണ്ടുവരാനാകുമോ എന്നാണ് എന്നാൽ ഒരു പ്രശ്നം എന്നത് ഈ ഉയർന്ന ഫ്രീക്വെൻസി ആണ് പിന്നെ ഇവിടെ പവർ പ്രവഹിക്കുക വേവ് ഗൈഡിൽ കൂടെ ആയിരിക്കും അത് ഒരു കണ്ടക്ടർ ആണ് അല്ലാതെ 2 കണ്ടക്ടർ അല്ല എന്തെന്നാൽ ഈ 2 കണ്ടക്ടർ എന്നത് ഉയർന്ന ഫ്രീക്വെൻസിയിൽ ഒരുപാടു പവർ ലോസ് ഉണ്ടാകാൻ കാരണമാകും ഒരു കണ്ടക്ടർ എന്നത് ട്രാൻസ്വേർസ് ഇലക്ട്രോ മാഗ്നെറ്റിക് അല്ലെങ്കിൽ ക്വാസി TEM കടത്തിവിടുന്നതല്ല അപ്പോൾ ഇവിടെ ഫീൽഡ് എന്നത് TEM അല്ല അത് ട്രാൻസ്വേർസ് ഇലക്ട്രിക്ക് പിന്നെ ട്രാൻസ്വേർസ് മാഗ്നെറ്റിക് മോഡുകളുടെ ഒരു സംയോഗമാണ് വേവ് ഗൈഡ് പോലെയുള്ള ഒരു ഒറ്റ കണ്ടക്ടറിൽ വോൾടേജ് എടുക്കാൻ വേണ്ടി ഉള്ള രണ്ടു ടെർമിനൽ ലഭിക്കുക എന്നത് നല്ല പ്രയാസമായ കാര്യമാണ് എന്തെന്നാൽ വോൾടേജ് പിന്നെ കറന്റ് എന്നിവ അളന്നു നോക്കണമെങ്കിൽ രണ്ടു ടെർമിനലുകൾ ആവശ്യമാണ് നാം പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ആണ് അളക്കുന്നത് യഥാർത്ഥ പൊട്ടൻഷ്യൽ അല്ല അതുപോലെ കറന്റ് ഒരു ടെർമിനലിൽ കയറിയാൽ അടുത്ത ടെർമിനലിലൂടെ പുറത്തു പോകേണ്ടതാണ് അതിനാൽ അവിടെയും രണ്ടു ടെർമിനലുകൾ ആവശ്യമാണ് നെറ്റ്വർക്ക് ന്റെ ഒരു പ്രത്യേകത ആണ് ഇമ്പിഡൻസ് വോൾടേജ് കറന്റ് എന്നിവ ഇവിടെ അതുല്യമല്ലാത്തതിനാൽ ഇവിടെ ഇമ്പിഡൻസ് എന്നതും അങ്ങനെ തന്നെ അതായത് ഉയർന്ന ഫ്രീക്വെൻസിയിൽ ഇമ്പിഡൻസ് എന്നത് ഒരു അതുല്യമായ വാല്യൂ ആയിരിക്കില്ല എന്നാൽ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ വേവ് ഗൈഡ് പോലെയുള്ള ഒരു ഒറ്റ കണ്ടക്ടർ വഴി വോൾടേജ് കറന്റ് എന്നിവ അളക്കാൻ സാധിക്കുന്നതാണ് കാരണം ഫീൽഡ് തിയറി ഉപയോഗിക്കുന്നതിനു പകരം വേവ് തിയറി നമുക്ക് ഉപയോഗിക്കാനാകുന്നതാണ് അതായതു ഡിസ്ട്രിബ്യുട്ടഡ് തിയറി ട്രാൻസ്മിഷൻ ലൈൻ രൂപത്തിൽ സർക്യൂട് തിയറി നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ട യഥാർത്ഥ ഉത്തരം ഒരു 3 ഡയമെൻഷൻ വെക്റ്റർ ആയിരിക്കും അത് താരതമ്യേന ലളിതമാണ് അപ്പോൾ ചോദ്യം എന്നത് ഈ ടെർമിനൽ അളവുകൾ നമുക്ക് അതുല്യമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നതാണ് തീർച്ചയായും ഈ ഉയർന്ന ഫ്രീക്വെൻസിയിൽ ഫേസ് ഡിലെ എന്നത് ഒഴിവാക്കാനാകാത്തതാണ് എന്തെന്നാൽ ഇത് ജിഗാ ഹേർട്സ് അല്ലെങ്കിൽ നൂറു കണക്കിന് മെഗാ ഹേർട്സ് റേഞ്ചിൽ ആണ് അതിനാൽ ചെറിയ നീളം പോലും നല്ല ഫേസ് മാറ്റം ഉണ്ടാക്കുന്നതാണ് അത്കൊണ്ടുതന്നെ ഫേസ് ഡിലെ എന്നത് ഒഴിവാക്കാനാകാത്തതാണ് ഉറപ്പായുള്ള കാര്യം ഇവിടെ വോൾടേജ് എന്നത് വോൾടേജ് വേവ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഒരു കമ്പോണന്റിനു കുറുകെ അത് എത്രയാണ് എന്നതാണ് അതായതു വോൾടേജ് വേവിന്റെ രൂപത്തിൽ ഉള്ള വോൾടേജ് ആണ് ഇവിടെ നിലനിൽക്കുന്നത് അത് പോലെ കറന്റ് എന്നത് കറന്റ് വേവ് ആയും നിലനിൽക്കുന്നു അതുപോലെ തന്നെ പവർ എന്നത് പവർ വേവ് ആണ് അത് നാം ഇമ്പിഡൻസ് മാച്ചിങ്ങിൽ കണ്ട അതെ പവർ വേവ് തന്നെ ആണ് അത് നാം പോർട്ടിൽ ൽ നിർവചിക്കുന്നു ആദ്യം കൃത്യമായി പോർട്ട് നിർവചിക്കാനാകുക എന്നത് പ്രധാനമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ടെർമിനൽ പ്ലെയിൻ നമുക്ക് നിർവചിക്കാനാകുമെങ്കിൽ അവിടെ പോർട്ട് വോൾടേജ് പിന്നെ പോർട്ട് കറന്റ് എന്നിവ നിർവചിക്കാനായി നമുക്ക് സാധിക്കും അത് സാധിച്ചാൽ പിന്നെ പോർട്ട് ഇമ്പിഡൻസ് എത്രയെന്നും കണ്ടെത്താം ഇവിടെ യുണിക്നെസ് ഇല്ലാത്തതിനാൽ പല രീതിയിൽ ഇത് ചെയ്യാം അപ്പോൾ വോൾടേജ് കറന്റ് എന്നിവ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് അത് തന്നെ നമുക്ക് ഇമ്പിഡൻസ് മാച്ചിങ് പിന്നെ അതുപോലുള്ള ഡിസൈൻ കാര്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാം ആദ്യം നമുക്ക് ഒരു 2 കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈൻ നോക്കാം അത് ഒരു കോ ആക്സിയെൽ ലൈൻ ആണ് അത് നമുക്ക് ജിഗാ ഹേർട്സ് വരെ വർദ്ധിപ്പിക്കാം ഇപ്പോൾ അത് 10 20 ജിഗാ ഹേർട്സ് വരെ പോകാറുണ്ട് ഈ ചിത്രം നിങ്ങൾ നോക്കുക ഇവിടെ രണ്ടു കണ്ടക്ടർ ആണ് ഉള്ളത് അതിൽ ഒരെണ്ണം പോസിറ്റീവ് ചാർജ് ചെയ്തിരിക്കുന്നു അടുത്ത് നെഗറ്റീവ് ആയി ചാർജ് ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇതിനിടയിൽ ഇലക്ട്രിക്ക് ഫീൽസും മാഗ്നെറ്റിക് ഫീൽസും ഉണ്ടാകും ഇനി നാം പറഞ്ഞത് പോലെ ഇവിടെ ഈ രണ്ടു കണ്ടക്ടറുകളുടെ ഇടയിൽ ഒരു ക്വാസി സ്റ്റാറ്റിക് ട്രാൻസ്വേർസ് ഫീൽഡ് ഉണ്ട് ഇതിൽ മറ്റു TEM അല്ലാത്ത വേവുകളും കടന്നു പോകുന്നതാണ് എന്നാൽ നാം ക്വാസി സ്റ്റാറ്റിക് സമീപനം കൈക്കൊണ്ടാൽ നാം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എടുക്കുന്ന സമയം നമുക്ക് വോൾടേജ് ലഭിക്കുന്നതാണ് ആ വോൾടേജ് എന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് അതിനാലാണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കു പോകുമ്പോൾ ഈ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്നത് വോൾടേജ് ആണ് എന്ന് പറയുന്നത് 2 കണ്ടക്ടർ കേസിൽ ഈ വോൾടേജ് എന്നത് അതുല്യമായിരിക്കും അതുപോലെ നമുക്കറിയാം മാഗ്നെറ്റിക് ഫീൽഡിന്റെ ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ എന്നത് കറന്റ് ആണ് എന്ന് ഇവിടെ ആ ടെർമിനൽ കറന്റ് എന്നത് പോസിറ്റീവ് കണ്ടക്ടറിലൂടെ ആണ് ആ കറന്റ് നമുക്ക് ഒരു ക്ലോസ്ഡ് പാതയിലൂടെ അതുല്യമായി നിർവചിക്കാനാകുമെങ്കിൽ നമുക്ക് വോൾടേജ് കറന്റ് എന്നിവയുടെ അനുപാതം ലഭിക്കുന്നതാണ് അതാണ് ഇമ്പിഡൻസ് ഇത് യഥാർത്ഥത്തിൽ ട്രാൻസ്മിഷൻ ലൈൻ തിയറി ആണ് ഇനി നമുക്ക് ഒരു റെക്ടാങ്കുലാർ വേവ് ഗൈഡ് നോക്കാം ചതുര വേവ് ഗൈഡ് എന്നതിന്റെ ഡോമിനന്റ് ഫീൽഡ് എന്നത് TE 10 ആണ് അത് ഒരു TEM അല്ലാത്ത മോഡ് ആണ് കൂടാതെ അത് ഇലക്ട്രിക്ക് ഫീൽഡ് മാത്രമായാണ് നിലനിൽക്കുന്നത് ട്രാൻസ്വേർസ് ഇലക്ട്രിക് ഫീൽഡിൽ ആകെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് മാത്രമാണുള്ളത് അത് വേവ് ഗൈഡിന്റെ ചെറിയ വശത്തുകൂടെ ആണ് സഞ്ചരിക്കുക പൊതുവെ അത് y ദിശ എന്നാണ് പറയുക X ദിശയിലൂടെ ഉള്ള വ്യതിയാനം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അത് ഒരു സൈനുസോയിടൽ വ്യതിയാനമാണ് പിന്നെ വേവ് ചലിക്കുന്നത് പോസിറ്റീവ് Z ദിശയിലൂടെ ആണ് അതിൽ നിന്നും ഈ വോൾടേജ് എന്നത് ഇതിന്റെ ലൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നത് തീർച്ചയായും V ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാനായി നാം തിരഞ്ഞെടുക്കുന്ന പാതയെ ഈ വോൾടേജ് ആശ്രയിക്കുന്നു അതോടൊപ്പം തന്നെ xy എന്നിവയെയും ആശ്രയിക്കുന്നു അതായതു ഇവിടെ നാം നടുവിലെ പാതയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മുതൽ അതായതു മുകളിൽ വരെ ആണ് ആ ഇന്റെഗ്രേലിനു നമുക്ക് ഒരു നിശ്ചിത വാല്യൂ ലഭിക്കുന്നതാണ് അത് കൊടുത്തു കിട്ടുന്ന വാല്യൂ എന്തായാലും അല്ല അത് വീതി കുറഞ്ഞ ഭാഗമാണ് നമുക്ക് വേണ്ടത് വോൾടേജ് കറന്റ് പിന്നെ ഇമ്പിഡൻസ് എന്നിവയാണ് അത് ഒരു ഒറ്റ ട്രാൻസ്മിഷൻ ലൈനിൽ നിർവചിക്കാനാകില്ല ഭാഗ്യവശാൽ മൈക്രോവേവ് ഗവേഷകർ വേവുകൾ ഉപയോഗിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഇപ്പോഴും നമുക്ക് വോൾട്ടേജും കറന്റും നിർവചിക്കാനാകും എന്നാൽ ഒരു TEM അല്ലാത്ത മോഡിൽ ഉദാഹരണത്തിന് മോഡിനനുബന്ധിച്ചു നമുക്ക് വോൾടേജ് കറന്റ് എന്നിവ നിർവചിക്കാനാകും ഇവിടെ മോഡിന് മറ്റൊരു വോൾടേജ് കറന്റ് നിർവചനം ഉണ്ട് വീണ്ടും മറ്റൊരു നിർവചനം അതുപോലെ വീണ്ടും ഇവിടെ 3 4 ഗൈഡ് ലൈനുകൾ ഉണ്ട് ആദ്യത്തേത് നിങ്ങൾക്കറിയാം ഓരോ മോഡിലും എന്താണ് ട്രാൻസ്വേർസ് ഫീൽഡ് അപ്പോൾ വോൾടേജ് എന്നത് ഈ ട്രാൻസ്വേർസ് ഇലക്ട്രിക്ക് ഫീൽഡിന് ആനുപാതികമായിരിക്കണം അതാണ് ആദ്യത്തേത് ഇനി രണ്ടാമത്തേത് എന്നത് കറന്റ് എന്നത് ട്രാൻസ്വേർസ് മാഗ്നെറ്റിക് ഫീൽഡിന് ആനുപാതികമായിരിക്കണം ഇനി ഈ ആനുപാതിക കോൺസ്റ്റന്റ് എന്നത് എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ അത് അതുല്യമല്ല എന്നാൽ രണ്ടു കണ്ടിഷൻ പറയുന്നതോടു കൂടി ഈ മുഴുവൻ കാര്യവും നമുക്ക് അതുല്യമാക്കി മാറ്റാൻ സാധിക്കും ഒരു കാര്യം എന്നത് ഇൻസ്റ്റന്റീനിയസ് പവർ എന്നത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഗുണിതം ആയിരിക്കണം പിന്നെ ഈ വോൾട്ടേജിന്റെയും കറന്റിന്റെയും അനുപാതം എന്നത് ഇമ്പിഡൻസ് ആയിരിക്കണം ഈ ഇമ്പിഡെൻസിൽ രണ്ടു വാല്യൂ ആണുള്ളത് നമുക്ക് ഒന്നുകിൽ ഇത് വേവ് ഇമ്പിഡൻസ് ആകാം എന്തെന്നാൽ ഓരോ മോഡിലും ഇതിനൊരു മോഡൽ ഇമ്പിഡൻസ് ഉണ്ട് അത് ട്രാൻസ്വേർസ് ഇലക്ട്രിക്ക് ഫീൽഡ് പിന്നെ ട്രാൻസ്വേർസ് മാഗ്നെറ്റിക് ഫീൽഡ് എന്നിവയുടെ അനുപാതമായിരിക്കും അപ്പോൾ പവർ എന്നത് സഞ്ചരിക്കുന്നത് Z ദിശയിലാണു പിന്നെ ഈ Zw ആണ് വേവ് ഇമ്പിഡൻസ് ഇത്തരത്തിൽ ആ ഇമ്പിഡൻസ് നിങ്ങൾക്കു നിർമിക്കാം അത് വോൾടേജ് ബൈ കറന്റ് എന്ന രീതിയിൽ മുമ്പ് പറഞ്ഞത് പോലെ പറയാം അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാം നമുക്ക് രണ്ടു മാർഗങ്ങൾ ആണുള്ളത് അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെർമിനൽ പ്ലെയിനിൽ വോൾടേജ് കറന്റ് എന്നിവ അതുല്യമായി നിർവചിക്കാനാകു൦ തീർച്ചയായും വോൾടേജ് കറന്റ് എന്നിവ Z ദിശയിൽ വേവിന്റെ രൂപത്തിൽ ആണ് സഞ്ചരിക്കുന്നത് എന്നാൽ ടെർമിനൽ വോൾടേജ് കറന്റ് എന്നിവ അതുല്യമായിരിക്കും അതിനാലാണ് ഒരു ഏകപക്ഷ വേവ് ഗൈഡ് മോഡ് എന്നതിലെ ഇലക്ട്രിക്ക് ഫീൽഡിലെ ട്രാൻസ്വേർസ് കമ്പോണന്റ് എന്നത് x y പിന്നെ z എന്നിവയുടെ ഫങ്ക്ഷൻ ആണെന്ന് നാം പറയുന്നത് അപ്പോൾ അതിനെ നിർവചിക്കുന്നത് ഇൻ ടു ഒരു പോസിറ്റീവിലേക്ക് സഞ്ചരിക്കുന്ന വേവ് അതോടൊപ്പം ഒരു നെഗറ്റീവിലേക്കു സഞ്ചരിക്കുന്ന വേവ് നാം ഇവിടെ എന്ന് വിളിക്കുന്നത് അത് ലോസ്സ് ഇല്ലാത്തതാണ് എന്ന അനുമാനത്തിലാണ് അഥവാ അത് അങ്ങനെ അല്ല എങ്കിൽ നാം പിന്നെ എന്ന രീതിയിൽ വേണം എടുക്കാൻ അതാണ് പ്രൊപഗേഷൻ കോൺസ്റ്റന്റ് അതുപോലെ ട്രാൻസ്വേർസ് മാഗ്നെറ്റിക് ഫീൽഡ് എന്നതും ഇതേ രീതിയിൽ എഴുതാനാകുന്നതാണ് ഇത് ഒരു വേവ് ഗൈഡിനെ പല വേവ് ഗൈഡ് മോഡായി വിഭജിക്കുന്നതിനു തുല്യമാണ് നമുക്കറിയാം ഇലക്ട്രിക്ക് ഫീൽഡ് എയ്ഗൻ ഫങ്ക്ഷൻ എന്നതാണ് അതുപോലെ മാഗ്നെറ്റിക് ഫീൽഡ് എയ്ഗൻ ഫങ്ക്ഷൻ എന്നതാണ് അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് മോഡൽ ഇമ്പിഡൻസ് വഴിയാണ് ഇതാണ് ഫീൽഡ് തിയറി പോയിന്റ് ഇനി നമുക്ക് അനുബന്ധ വോൾടേജ് കറന്റ് കണ്ടെത്തണം നാം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നത് ഒരു പോസിറ്റീവിലേക്കു പോകുന്ന വോൾടേജ് ആയി എഴുതുന്നു അതുപോലെ കറന്റ് വേവും നമുക്ക് രണ്ടു ഭാഗമാക്കി മാറ്റാം ഒന്ന് ഇൻസിഡന്റ് വേവ് അടുത്ത് റിഫ്ലെക്ടഡ് വേവ് ഇവയുടെ ഇടയിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അത് പവറിന്റെ ദിശ മൂലം ആണ് തുല്യ വോൾടേജ് കറന്റ് നിർവചിക്കാനുള്ള ഗൈഡ് ലൈനുകൾ രണ്ടാണ് ആദ്യ പോയിന്റ് വോൾടേജ് എന്നത് ട്രാൻസ്വേർസ് ഇലക്ട്രിക്ക് ഫീൽഡ് എന്നതിന് ആനുപാതികമാണ് അതിനാലാണ് നാം എന്നത് എന്ന രീതിയിൽ എഴുതുന്നത് എന്നത് കോൺസ്റ്റന്റ് ആണ് തീർച്ചയായും ഇവിടെ എയ്ഗൻ ഫങ്ക്ഷൻ ഉള്ളതാണ് എന്നാൽ മറ്റേ ഭാഗം നാം എഴുതുക എന്നതാണ് അതുപോലെ മാഗ്നെറ്റിക് ഫീൽഡ് എന്നത് കറന്റിനു ആനുപാതികമാക്കി മാറ്റുന്നു ഇവിടെ ആനുപാതിക കോൺസ്റ്റന്റ് എന്നത് ആണ് ഇനി നാം പവർ ഫ്ലോ കണ്ടിഷൻ ആണ് പരിഗണിക്കുന്നത് അതായതു ഇൻസ്റ്റന്റീനിയസ് പവർ എന്നത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും പ്രോഡക്റ്റ് ആണ് നാം ഹാർമോണിക് ഫീൽഡ് ആണ് അനുമാനിക്കുന്നതെങ്കിൽ സൈനുസോയിടൽ ഫീൽഡ് എന്നത് ഒരു ഹാർമോണിക് ഫീൽഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു ശരാശരി പവർ എന്നത് ഇവിടെ നിർവചിക്കാം അതോടൊപ്പം വേവ് പവർ ഫ്ലോ wave power flow എന്നതും ഡിഫൈൻ ചെയ്യാം ഇനി ഇൻസിഡന്റ് പവർ ഫ്ലോ എന്നത് നമുക്ക് പോയിന്റിങ് വെക്റ്റർ രൂപത്തിൽ എഴുതാം അതായതു പോയിന്റിങ് വെക്റ്ററിന്റെ സർഫസ് ഇന്റഗ്രൽ അതിനാൽ പകുതി വരുന്നത് യിൽ നിന്നും ആണ് ഏതു സൈനുസോയിടൽ എടുത്താലും ആവറേജ് എന്നത് 1 2 ആണ് അതിനാൽ എന്നത് പോയിന്റിങ് വെക്റ്റർ അതായത് യൂണിറ്റ് ഏരിയയിലെ പവർ ഫ്ലോ ആണ് അത് രേഖപ്പെടുത്തുന്നത് വെക്റ്റർ ആയാണ് അപ്പോൾ ഇവിടെ നാം ഈ എക്സ്പ്രെഷൻ വോൾടേജ് കറന്റ് എന്നിവക്ക് ആനുപാതികമാക്കി മാറ്റി വോൾട്ടേജിന്റെയും കറന്റിന്റെയും രൂപത്തിൽ എഴുതിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഇൻസ്റ്റന്റീനിയസ് പവർ എന്നത് എന്നതിന് തുല്യമാക്കുകയാണ് കോംപ്ലക്സ് രൂപത്തിൽ എഴുതുമ്പോൾ അത് ആകുന്നു ആദ്യ സമവാക്യം നാം ഫീൽഡിന്റെ രൂപത്തിൽ എഴുതി രണ്ടാമത്തേത് ആണ് ഇത് നാം തുല്യമാക്കിയാൽ നമുക്ക് ഒരു കണ്ടിഷൻ ലഭിക്കും എന്നിവയുടെ പ്രോഡക്റ്റ് എന്നത് എയ്ഗൻ ഫങ്ക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു വേവ് മോഡ് മോഡൽ വ്യതിയാനം പിന്നെ ഗൈഡിന്റെ രൂപം എന്നിവയെ ആശ്രയിച്ചു ഗൈഡിനെ നമുക്ക് പരിശോധിക്കാം ഇവിടെ ഇമ്പിഡൻസ് എന്നതും തുല്യമാകണം അതായത് ഇവിടെ ഇനിയും നമുക്ക് രണ്ടു മാർഗങ്ങൾ ഉണ്ട്

ഈ ട്യൂട്ടോറിയൽ പ്രോബ്ലം നാം പിന്നീട് ചെയ്യുന്നതാണ് ഇനി നാം രണ്ടാമത്തെ മാർഗമാണ് നോക്കുക ഇവിടെ ആദ്യത്തെ മാർഗവും എടുക്കാനാകും പൊതുവെ ഫീൽഡിനെ നമുക്ക് ട്രാൻസ്വേർസ് ഫീൽഡ് ആയി നിർവചിക്കാം ഇനി നമുക്ക് തുല്യമായ വോൾട്ടേജിന്റെയും കറന്റിന്റെയും രൂപത്തിൽ എഴുതിയാൽ അത് ആണ് നിങ്ങൾക്ക് കാണാം അത് പിന്നെ എന്നിവയുടെ തുകയാണ് അതുപോലെ ട്രാൻസ്വേർസ് മാഗ്നെറ്റിക് ഫീൽഡ് എന്നത് തുല്യമായ കറന്റിന്റെ രൂപത്തിൽ അതായതു പിന്നെ എന്നിവയുടെ തുകയായി എഴുതാനാകും അതിൽ നിന്നും എന്നിവയുടെ വാല്യൂ കണ്ടെത്താം പവർ തുല്യതയും ഇമ്പിഡൻസ് തുല്യതയും നാം പരിഗണിക്കുമ്പോൾ ഇവിടെ രണ്ടു അറിയാത്ത വാല്യൂ പിന്നെ രണ്ടു സമവാക്യം എന്നിവ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കു അവയുടെ വാല്യൂ കണ്ടെത്താനാകും ഇവിടെ പല മോഡുകൾ സാധ്യമാണ് പ്രത്യേകിച്ച് ഈ തുടർച്ചയില്ലായ്മയുടെ അരികെ പിന്നെ ഈ എക്സൈറ്റഷൻ അരികെ അല്ലെങ്കിൽ ഈ സോഴ്സിന് അരികെ ലോഡിന് അരികെ ഒറ്റ മോഡിന് പകരം പല ഉയർന്ന മോഡുകളും ഇവിടെ സാധ്യമാണ് നാം മുമ്പ് പറഞ്ഞത് പോലെ മോഡൽ വോൾടേജ് കറന്റ് എന്നിവയുടെ രൂപത്തിൽ എഴുതാനാകും ഇത് ഇവിടെ പൂർണമാകുന്നു അപ്പോൾ നമുക്ക് മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ തുല്യമായ വോൾടേജ് കറന്റ് എന്നിവ നിർവചിച്ചു ഇത് ഒരു ഡൈനാമിക് പ്രോബ്ലം ആണ് അതായതു ഉയർന്ന ഫ്രീക്വൻസിയിലെ ഇലക്ട്രോ ഡൈനാമിക് പ്രോബ്ലം ഇത് താഴ്ന്ന ഫ്രീക്വൻസിയിലെ വോൾടേജ് കറന്റ് എന്നിവ കണ്ടെത്തുന്നത് പോലെ ലളിതമായ കാര്യമല്ല അത് വോൾടേജ് കറന്റ് എന്നിവയുടെ ഒഴുക്കാണ് എന്നാൽ അത് ചെയ്യാനാകുന്നതാണ് ഓരോ മോഡിലും അതുമായി ബന്ധപ്പെട്ട വോൾടേജ് കറന്റ് എന്നിവ ഉണ്ട് അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ തിയറി ഉപയോഗിക്കാനാകുന്നതാണ് മാക്സ് വെൽ സമവാക്യം Maxwell's equation ഉപയോഗിക്കുന്നതിനു പകരം കുറവ് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം ഒരു പ്രായോഗിക എഞ്ചിനീയർ എന്ന നിലയിൽ നാം വളരെ നല്ല വിവരങ്ങൾ വേണം ഉപയോഗിക്കാൻ അതായതു ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഇനി രണ്ടാമത്തെ ഉപകരണമായ സ്കേറ്ററിങ് പാരാമീറ്റർ നമുക്ക് അടുത്ത ലെക്ച്ചറിൽ കാണാം